നമസ്കാരം ഈ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെക്കുറിച്ച് ചർച്ചചെയ്യും കൂടാതെ മുൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം കാണുകയും പിന്നീട് ട്രാൻസ്ഫർ ഫംഗ്ഷനിലേയ്ക്ക് പോകുകയും ചെയ്യും അവസാന ക്ലാസ്സിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുളള സർക്യൂട്ട് വിശകലനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു ഇവ ലാപ്ലേസ് ട്രാൻസ്ഫോർമിംഗ് ഉൾപ്പെടുന്ന സർക്യൂട്ട് വിശകലനമാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഈ സർക്യൂട്ട് സമയ ഡൊമെയ്നിൽ നിന്ന് എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു ആദ്യ ഘട്ടം നോഡൽ വിശകലനം അല്ലെങ്കിൽ മെഷ് വിശകലനം സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ സൂപ്പർപോസിഷൻ തുടങ്ങിയ ഏതെങ്കിലും സർക്യൂട്ട് വിശകലന സാങ്കേതികത ഉപയോഗിച്ച് നമ്മൾ ഈ ലാപ്ലേസ് സർക്യൂട്ട് പരിഹരിക്കുന്നു ഒടുവിൽ നമുക്ക് കിട്ടുന്ന ഫലം എസ് ഡൊമെയ്നിൽ അല്ല വിപരീത ലാപ്ലേസ് പരിവർത്തനം എടുത്ത് സമയ ഡൊമെയ്നിൽ ഉത്തരം കണ്ടെത്തുന്നു ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഈ സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പരിവർത്തനം ചെയ്യും ടൈം ഡൊമെയ്നിലെ R ന്റെ മൂല്യം എസ് ഡൊമെയ്നിലും R ആയി തുടരും അതാണ് ഓംസ് നിയമം അല്ലെങ്കിൽ എസ് ഡൊമെയ്നിൽ മാറും ഇൻഡക്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും കാര്യത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഇവ ഊർജ്ജ സംഭരണ ഘടകങ്ങളാണ് ഇൻഡക്റ്ററിന്റെ കാര്യത്തിൽ നമുക്ക് ചില പ്രാരംഭ അവസ്ഥകൾ ഉണ്ടാകും നമുക്ക് പ്രാരംഭ കറന്റ് ഉണ്ടാകാം ഇൻഡക്ടറിനായി ആ സമയ ഡൊമെയ്ൻ സർക്യൂട്ട് നമുക്ക് എസ് ഡൊമെയ്നായി മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ ചർച്ചചെയ്തു അതിനാൽ ഇത് വോൾട്ടേജിനുള്ളതായിരുന്നു നിങ്ങൾ കാണുന്നിടത്ത് കിർചോഫിന്റെ വോൾട്ടേജ് നിയമത്തിന്റെ Kirchhoff's voltage law കാര്യത്തിൽ ഇത് ബാധകമാകും അതുപോലെ കറന്റിനായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് സർക്യൂട്ട് ഉണ്ടാകും ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന ഒരു കറൻറിന്റെ പ്രാരംഭ അവസ്ഥ കാരണം നമ്മൾ ചേർത്ത സാങ്കൽപ്പിക കറന്റ് സ്രോതസ്സിന്റെ ദിശയെക്കുറിച്ചാണ് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ചചെയ്തത് അതിനാൽ ദിശ ഇവിടെ ഒരു പ്ലസ് ചിഹ്നവുമായി പൊരുത്തപ്പെടുന്നു അതുപോലെ ഇവിടെ കറൻറുമായി ബന്ധപ്പെട്ട പ്രാരംഭ അവസ്ഥ ആയിരിക്കും അതുകൊണ്ടാണ് ഇതിന് വോൾട്ടേജിന് വിപരീത ചിഹ്നം ഉണ്ടായിരുന്നത് അതിനാൽ ഇത് നമ്മൾ മുൻ ക്ലാസിൽ ചർച്ചചെയ്തു അതുപോലെ കപ്പാസിറ്ററിനും രണ്ട് സമവാക്യങ്ങൾ വോൾട്ടേജിനും മറ്റൊന്ന് കറൻറിനും ഉണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു വോൾട്ടേജിനായി നിങ്ങൾ ടൈം ഡൊമെയ്ൻ സർക്യൂട്ടിനെ എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഇത് ചിത്രത്തിൽ കാണുന്നതുപോലെ ആയിരിക്കും അവിടെ പ്രാരംഭ അവസ്ഥ അതായത് ടി 0 സമയത്ത് കപ്പാസിറ്ററിന് കുറുകെ ഉളള വോൾട്ടേജിന് തുല്യമാണ് അതുപോലെ എസ് ഡൊമെയ്നിലെ കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന കറന്റ് നിങ്ങൾ കണ്ടെത്തുമ്പോൾ തുല്യമായ കറന്റ് സ്രോതസ്സിനെയും പ്രതിനിധീകരിക്കും അതാണ് വെർച്വൽ കറന്റ് സ്രോതസ്സ് അതിൻറെ ദിശ വോൾട്ടേജ് സ്രോതസ്സിൽ നിന്ന് ഒഴുകുന്ന കറൻറിന്റെ വിപരീത ദിശയിൽ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് ചിഹ്നം ഉള്ളതിനാലാണിത് അതിനാൽ നമ്മളുടെ മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ തുടർന്ന് നമ്മൾ ഈ തുല്യമായ സർക്യൂട്ടുകൾ ഉപയോഗിക്കുകയും നമ്മൾ എസ് ഡൊമെയ്നിൽ സർക്യൂട്ട് സൃഷ്ടിക്കുകയും പരിഹരിക്കുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനുമായി മുന്നോട്ട് പോകാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് സിഗ്നൽ പ്രോസസ്സിംഗിലെ ഒരു പ്രധാന ആശയമാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാരണം ഒരു സിഗ്നൽ ഒരു നെറ്റ്വർക്കിലൂടെ കടന്നുപോകുമ്പോൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് നെറ്റ്വർക്ക് പ്രതികരണം കണ്ടെത്തുന്നതിനുള്ള ഉചിതമായ ഉപകരണമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും നെറ്റ്വർക്ക് സ്ഥിരതയ്ക്കും നെറ്റ്വർക്ക് സിന്തസിസിനുമായി നിർണ്ണയിക്കുക അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുക പിന്നീട് കോഴ്സിൽ നെറ്റ്വർക്ക് സ്ഥിരതയെയും നെറ്റ്വർക്ക് സിന്തസിസ് ആശയങ്ങളെയും കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഇപ്പോൾ നെറ്റ്വർക്കിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു പ്രത്യേക ഇൻപുട്ടിനോട് എങ്ങനെ ഔട്ട്പുട്ട് പ്രതികരിക്കുന്നു എന്നും അത് എങ്ങനെ ഉണ്ടാകുമെന്നും വിവരിക്കുന്നു അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണും പ്രാരംഭ ഊർജ്ജമില്ലെന്ന് അർത്ഥമാക്കുന്നതിനാൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള എസ് ഡൊമെയ്നിലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇത് വ്യക്തമാക്കുന്നു ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ നിർവചിക്കും നമ്മൾ ഇതിനെ പൊതുവായി എന്ന് വിളിക്കുന്നു ഇത് പ്രാരംഭ സാഹചര്യങ്ങൾ പൂജ്യം ആകുമ്പോൾ ഉള്ള ഇൻപുട്ടിനോടുളള ഔട്ട്പുട്ട് പ്രതികരണത്തിന്റെ അനുപാതമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെ പ്രതിനിധീകരിക്കാം എന്ന ഔട്ട്പുട്ട് പ്രതികരണത്തെ ഇൻപുട്ട് എക്സൈറ്റേഷൻ കൊണ്ട് ഹരിച്ചത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് നിർവചിച്ചതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഈ സർക്യൂട്ടിലെ ഏത് സ്ഥലത്തും കറന്റോ വോൾട്ടേജോ ആകാമെന്നതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ കാര്യത്തിൽ നമുക്ക് നാല് സാധ്യതകളുണ്ട് ആദ്യത്തേത് വോൾട്ടേജ് നേട്ടത്തിന്റെ കാര്യത്തിലാണ് അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജുമായി പരസ്പരബന്ധിതമാണ് അത് സർക്യൂട്ടിന്റെ വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ ഉളള ഔട്ട്പുട്ട് പ്രതികരണത്തെ വോൾട്ടേജ് രൂപത്തിൽ നൽകിയ ഇൻപുട്ട് എക്സൈറ്റേഷൻ കൊണ്ട് ഹരിക്കുന്നു അടുത്തത് കറന്റ് നേട്ടമാണ് അത് ഔട്ട്പുട്ട് കറന്റിനെ ഇൻപുട്ട് കറന്റുമായി ബന്ധിപ്പിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് അതിനാൽ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കറന്റ്നെ ഇന്പുട്ട് കറൻറ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഇപ്പോൾ അടുത്ത ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇംപെഡൻസ് ആകാം ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് രൂപത്തിലും ഇൻപുട്ട് കറന്റ് രൂപത്തിലുമാണ് അതുപോലെ ഔട്ട്പുട്ട് കറന്റ് രൂപത്തിലും ഇൻപുട്ട് വോൾട്ടേജ് രൂപത്തിലും ഉള്ളിടത്ത് ഇത് അഡ്മിറ്റന്സ് ആയിരിക്കും ഒരു പ്രത്യേക സർക്യൂട്ടിന് ഇതുപോലെ നിരവധി ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ ഉണ്ടെന്ന് ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അതായത് വോൾട്ടേജ് നേട്ടവും കറന്റ് നേട്ടവും ഇവ പരിമാണം ഇല്ലാത്തതാണ് കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ സംഗതിയാണ് അതിനാൽ ഈ രണ്ട് കേസുകളിലും ട്രാൻസ്ഫർ ഫംഗ്ഷൻ അളവില്ലാത്തതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സമവാക്യത്തിൽ നമുക്ക് എന്നിവ അറിയാം എന്ന് വിചാരിക്കുന്നു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് എന്നിവ ആയിരിക്കാം അതിനർത്ഥം ഇൻപുട്ട് വോൾട്ടേജും സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും മാത്രമേ നിങ്ങൾക്ക് അറിയൂ അങ്ങനെയാണെങ്കിൽ നൽകിയ ഇൻപുട്ടിനോടനുബന്ധിച്ച് ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് പ്രതികരണമായ ന്റെ മൂല്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ നിങ്ങൾ പറയും അത് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് പ്രതികരണത്തിന്റെ മൂല്യം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ന്റെ വിപരീത ലാപ്ലേസ് പരിവർത്തനം നടത്താം ഒരു പ്രത്യേക കേസായി ഇൻപുട്ട് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനാണെന്ന് നമ്മൾ പറഞ്ഞാൽ X ഒന്നിന് തുല്യമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ന് പറയും അതിനാൽ ഇത് ഇരുവശത്തും ലാപ്ലേസ് പരിവർത്തനമായിരുന്നു ഇത് നിങ്ങൾക്ക് തരും അതിനാൽ ഇത് സർക്യൂട്ടിന്റെ യൂണിറ്റ് ഇംപൾസ് പ്രതികരണത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ സർക്യൂട്ട് ഉത്തേജിപ്പിക്കുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് സർക്യൂട്ടിന്റെ യൂണിറ്റ് ഇംപൾസ് പ്രതികരണം നൽകും നെറ്റ്വർക്കിലേക്ക് യൂണിറ്റ് ഇംപൾസ് ഇൻപുട്ടായി നൽകുമ്പോൾ നെറ്റ്വർക്കിന്റെ സമയ ഡൊമെയ്ൻ പ്രതികരണമാണ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ നെറ്റ്വർക്കിന്റെ യൂണിറ്റ് ഇംപൾസ് പ്രതികരണത്തിന്റെ ലാപ്ലേസ് പരിവർത്തനം എന്നതുപോലെ നെറ്റ്വർക്കിന്റെ ഇംപൾസ് റെസ്പോൺസ് എന്റിറ്റി അറിഞ്ഞുകഴിഞ്ഞാൽ അതിനർത്ഥം ഒരു യൂണിറ്റ് ഇംപൾസ് ഇൻപുട്ട് നൽകുമ്പോൾ സർക്യൂട്ടിന്റെ പ്രതികരണം നമ്മൾക്കറിയാം തുടർന്ന് എസ് ഡൊമെയ്നിൽ ഉളള ഏത് ഇൻപുട്ട് സിഗ്നലിനോടുമുള്ള നെറ്റ്വർക്കിന്റെ പ്രതികരണം നമുക്ക് ടൈം ഡൊമെയ്നിലെ കൺവല്യൂഷൻ ഇന്റഗ്രൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൺവല്യൂഷൻ ഇന്റഗ്രലിനായുളള എസ് ഡൊമെയ്ൻ വിശകലനവുമായി ബന്ധപ്പെട്ടോ കണ്ടെത്താം ഇത് അടുത്ത സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യും അവിടെ കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് ഇംപൾസ് പ്രതികരണം അറിയാമെങ്കിൽ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് പ്രതികരണം കണ്ടെത്താൻ ഇത് എങ്ങനെ നമ്മളെ സഹായിക്കുമെന്നും കാണാം അതിനാൽ കൺവല്യൂഷൻ ഇന്റഗ്രലിനെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ഇത് നമ്മൾ വിശകലനം ചെയ്യും ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനുമുമ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനുകളുടെ സഹായത്തോടെ ഔട്ട്പുട്ട് പ്രതികരണം കണ്ടെത്തുന്നതിനുള്ള വിവിധ സമീപനങ്ങൾ എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അടിസ്ഥാനപരമായി വിവരങ്ങൾ ക്രമീകരണം ചെയ്യുന്നതിനും ഔട്ട്പുട്ട് പ്രതികരണം കണ്ടെത്തുന്നതിനും നമുക്ക് രണ്ട് വഴികൾ ഉണ്ട് ആദ്യത്തെ രീതി നമുക്ക് ഒരു സൌകര്യപ്രദമായ ഇൻപുട്ട് ഉണ്ടെന്ന് കരുതുക ഈ ഒന്നുകിൽ യൂണിറ്റ് ഇംപൾസ് അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂണിറ്റ് റാമ്പ് എന്തായാലും നിങ്ങൾക്ക് ഇത് സൌകര്യപ്രദമായ ഇൻപുട്ട് ആയി കണക്കാക്കാം ഇപ്പോൾ നമ്മളുടെ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത സർക്യൂട്ട് വിശകലന തന്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കും അത് കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ അല്ലെങ്കിൽ നോഡൽ അല്ലെങ്കിൽ മെഷ് വിശകലനം പോലെയാണ് അതിനാൽ നിങ്ങൾക്ക് ആ വിദ്യകൾ പ്രയോഗിച്ച് ഔട്ട്പുട്ട് കണ്ടെത്താനാകും ഇപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കുമ്പോൾ നിങ്ങൾ രണ്ടിന്റെയും അനുപാതം കണ്ടെത്താൻ ശ്രമിക്കും ആ അനുപാതം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് സർക്യൂട്ട് വിശകലനം പ്രയോഗിച്ച് ഔട്ട്പുട്ട് കണ്ടെത്താനാകും തുടർന്ന് നിങ്ങൾ രണ്ടിന്റെയും അനുപാതം എടുത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് പ്രതികരണം കണ്ടെത്താനാകും ഇപ്പോൾ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന മറ്റൊരു സമീപനത്തെ ഒരു ഗോവണി രീതി എന്ന് വിളിക്കുന്നു അതിനാൽ ഗോവണി രീതി എന്താണ് അർത്ഥമാക്കുന്നത് അടിസ്ഥാനപരമായി ഈ സർക്യൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് ഉൾപ്പെടുന്നു ഈ സമീപനത്തിൽ ഔട്ട്പുട്ട് ഒരു വോൾട്ട് അല്ലെങ്കിൽ ഒരു ആമ്പിയർ അല്ലെങ്കിൽ ഒരു ഉചിതമായ മൂല്യം നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ആദ്യ സമീപനവും രണ്ടാമത്തെ സമീപനവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ആദ്യ സമീപനത്തിൽ നമ്മൾ ഇൻപുട്ടിനെ അറിയപ്പെടുന്നതായി കരുതുന്നു കൂടാതെ സർക്യൂട്ടിന് നൽകിയ ഇൻപുട്ട് ഒരുപക്ഷേ യൂണിറ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അതുപോലെയോ ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു എന്നാൽ ഗോവണി രീതിയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം ഔട്ട്പുട്ട് എടുക്കുന്നു ഇതിനർത്ഥം ഒരു വോൾട്ട് അല്ലെങ്കിൽ ഒരു ആമ്പിയർ ഒരു ഔട്ട്പുട്ടായി നമ്മൾ കരുതുന്നു അത് ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചു തുടർന്ന് നമ്മൾ ഓംസിന്റെയും കിർചോഫിന്റെ നിയമത്തിന്റെയും അടിസ്ഥാന നിയമങ്ങൾ ഉപയോഗിക്കുന്നു സാധാരണയായി നമ്മൾ കിർചോഫിന്റെ കറന്റ് നിയമം Kirchhoff's current law മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഈ സർക്യൂട്ടിലൂടെ സഞ്ചരിക്കാൻ ഇത് കൂടുതൽ സൌകര്യപ്രദമാണ് തുടർന്ന് നമ്മൾ ഇൻപുട്ട് കണ്ടെത്തുന്നു ഇതിനർത്ഥം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ആരംഭിച്ച് സർക്യൂട്ട് ഉപയോഗിച്ച് നൽകിയ ഔട്ട്പുട്ടിന് അനുയോജ്യമായ ഇൻപുട്ട് എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ നമുക്ക് ഇൻപുട്ട് കണ്ടെത്താനാകും തുടർന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ ഒന്ന് ആയതിനാൽ ഈ കേസിനായുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും നിങ്ങളുടെ സൌകര്യത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഈ സമീപനം നമ്മൾ ചർച്ച ചെയ്യുന്ന ഗോവണി സമീപനം കൂടുതൽ സൌകര്യപ്രദമാണ് കാരണം സർക്യൂട്ടിന് ധാരാളം ലൂപ്പുകളോ നോഡുകളോ ഉള്ളപ്പോൾ നോഡൽ അല്ലെങ്കിൽ മെഷ് വിശകലനം പ്രയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ് ആദ്യ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം മെഷ് നോഡുകൾ ഉള്ള ഒരു സങ്കീർണ്ണ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നോഡ് നോഡൽ അല്ലെങ്കിൽ മെഷ് വിശകലനം പ്രയോഗിക്കുന്നത് അൽപ്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ആദ്യ രീതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സങ്കീർണ്ണമായ നെറ്റ്വർക്കുകളുടെ കാര്യത്തിൽ ഗോവണി രീതിയായ രണ്ടാമത്തെ രീതി കൂടുതൽ ഉചിതം അതിനാൽ നെറ്റ്വർക്കിന്റെ ട്രാൻസ്ഫർ പ്രവർത്തനം കണ്ടെത്തുന്നതിനുള്ള ഒരു സൌകര്യപ്രദമായ മാർഗ്ഗമായി നമ്മൾ ഇത് ഉപയോഗിക്കും ഇപ്പോൾ ആദ്യ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നമ്മൾ ഇൻപുട്ട് അനുമാനിക്കുകയും ഔട്ട്പുട്ട് കണ്ടെത്തുകയും ചെയ്തു രണ്ടാമത്തെ രീതിയിലായിരിക്കുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് അനുമാനിക്കുകയും തുടർന്ന് ഇൻപുട്ട് കണ്ടെത്തുകയും ചെയ്യുന്നു ഇപ്പോൾ രണ്ട് രീതികളിലും ഔട്ട്പുട്ടിന്റെയും ഇൻപുട്ടിൻറെയും പരിവർത്തനങ്ങളുടെ അനുപാതമായി നിങ്ങൾ കണക്കാക്കുന്നു നിങ്ങൾക്ക് ലീനിയർ സർക്യൂട്ട് ഉള്ളപ്പോൾ മാത്രമേ ഈ രണ്ട് രീതികൾ ബാധകമാകൂ എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ലീനിയറിറ്റി പ്രോപ്പർട്ടി പിന്തുടരുന്ന ഒരു സർക്യൂട്ടിൽ വിവിധ സർക്യൂട്ട് അനാലിസിസ് ടെക്നിക്കുകളുടെ സഹായത്തോടെ സർക്യൂട്ട് വിശകലനം ചെയ്യുന്ന പരമ്പരാഗത രീതി ഉപയോഗിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോവണി രീതി ഉപയോഗിക്കാം അതിനാൽ ഇപ്പോൾ ഇവ മനസിലാക്കാൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്ന രീതി കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ആദ്യത്തെ ഉദാഹരണം നോക്കാം ഈ സാഹചര്യത്തിൽ ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് യും ഇൻപുട്ട് നൽകിയത് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും അതിന്റെ പ്രതികരണവും കണ്ടെത്തണം അതിനാൽ എസ് ഡൊമെയ്ൻ വിശകലനത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ കഴിയും അതിനാൽ നിങ്ങൾ ആദ്യം ഉം എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യണം നിങ്ങൾ എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ω 4 ഇപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യുടെ ലാപ്ലേസ് പരിവർത്തനം 1s യുടെ ലാപ്ലേസ് പരിവർത്തനം 1s1 ഇപ്പോൾ H YX ന് തുല്യമായതിനാൽ നിങ്ങൾ Y നെ അംശത്തിലും X നെ ഛേദത്തിലും ഇടും നിങ്ങൾ ലളിതമാക്കുമ്പോൾ നിങ്ങൾക്ക് മൂല്യം 10 s2 2 s 1 s2 2 s 17 എന്ന് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ പ്രത്യേക ഫംഗ്ഷൻ നിങ്ങൾ ഈ പദങ്ങൾ പുനക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം ഇപ്പോൾ നിങ്ങൾ പുനക്രമീകരിക്കുകയാണെങ്കിൽ അത് മാറും ഈ പ്രത്യേക രൂപത്തിൽ നിങ്ങൾ ഇത് ക്രമീകരിക്കുമ്പോൾ വിപരീത ലാപ്ലേസ് രൂപാന്തരപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഒടുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ തരത്തിൽ ക്രമീകരിക്കുക തുടർന്ന് നിങ്ങൾക്ക് സമയ ഡൊമെയ്ൻ മൂല്യം എന്ന് പറയാൻ കഴിയും ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇൻപൾസ് പ്രതികരണമാണ് അതായത് 10 തുടർന്ന് സമയം പൂജ്യത്തേക്കാൾ വലുതാകുമ്പോൾ ബാധകമാണെന്ന് പറയാൻ നിങ്ങൾ യൂണിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗുണിക്കുന്നു അതിനാൽ ഇത് സർക്യൂട്ടിന്റെ യൂണിറ്റ് ഇംപൾസ് പ്രതികരണമല്ലാതെ മറ്റൊന്നുമല്ല ട്രാൻസ്ഫർ ഫംഗ്ഷനും സിസ്റ്റത്തിന്റെ യൂണിറ്റ് ഇംപൾസ് പ്രതികരണവും നിങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് മനസിലാക്കാൻ ഇത് സഹായിക്കും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ടിനായുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇതിൽ ഇൻഡക്റ്ററും കപ്പാസിറ്ററും രണ്ടും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം കറന്റ് തന്നിട്ടുണ്ട് അതിനിടയിലുള്ള അനുപാതം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതാണ് സർക്യൂട്ടിനായുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് കാണുകയാണെങ്കിൽ കറന്റ് ഡിവിഷൻ രീതിയുടെ സഹായത്തോടെ അത് കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾ കാണും കറന്റ് ഡിവിഷൻ രീതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കറന്റ് കാണുമ്പോൾ ന്റെ മൂല്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഈ കറന്റ് ഗുണം 2 ഓം റെസിസ്റ്റൻസ് അല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല അതിനാൽ ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കറന്റ് ഡിവിഷൻ രീതി ഉപയോഗിച്ചു വിവിധ സർക്യൂട്ട് വിശകലന തന്ത്രങ്ങൾ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്നതിനുള്ള നമ്മളുടെ ആദ്യ രീതിയാണിത് അതിനാൽ ഈ സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ലഭിക്കും

അടുത്തത് നമുക്ക് ഗോവണി രീതി പ്രയോഗിക്കാൻ ശ്രമിക്കാം കൂടാതെ നമ്മൾ ഗോവണി രീതി പ്രയോഗിക്കുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഗോവണി രീതിയുടെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് അറിയപ്പെടുന്നതായി നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ നമ്മൾ ഇവിടെ എന്തുചെയ്യും ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകിയിരിക്കുന്നത് ആണെന്ന് നമ്മൾ പറയും നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലെഗിൽ ഒഴുകുന്ന കറന്റ് ആയി മാറും കറന്റ് I2 ന്റെ മൂല്യം അറിയുമ്പോൾ ഈ ലെഗിന് കുറുകെയുള്ള വോൾട്ടേജ് V1 കണ്ടെത്താനാകും രണ്ടും സമാന്തരമായിരിക്കുന്നതിനാൽ ഇതിന് കുറുകെ ഉളള വോൾട്ടേജും സമാനമായിരിക്കും V1 ന്റെ മൂല്യം നമ്മൾ കണ്ടെത്തും അതിനാൽ V1 നമുക്ക് I2 ന്റെ രീതിയിൽ കണ്ടെത്താം

അടുത്തത് നമുക്ക് കണ്ടെത്താനാകും

ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് I1 I2 എന്നിവയുണ്ട് അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് കണ്ടെത്താനാകും ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിനാൽ നിങ്ങൾ ആദ്യ രീതി അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി ഏത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് സമാന ഫലം ലഭിക്കും ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ സെഷനും അവസാനിപ്പിക്കുന്നു ഈ സെഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെക്കുറിച്ച് ചർച്ച ചെയ്തു വിവിധ സർക്യൂട്ട് സിന്തസിസുകൾ പ്രോപ്പർട്ടികൾ എന്നിവ തിരിച്ചറിയാൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ അടുത്ത കുറച്ച് സെഷനുകളിൽ അത്തരം സന്ദർഭങ്ങളിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതി എങ്ങനെ ബാധകമാക്കുമെന്ന് നമ്മൾ കാണും പ്രത്യേകിച്ചും അടുത്ത സെഷനിൽ കൺവല്യൂഷൻ സിദ്ധാന്തവും കൺവല്യൂഷൻ ഇന്റഗ്രലും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസിലാക്കാൻ ശ്രമിക്കും അങ്ങനെ സർക്യൂട്ടുകളെ കൂടുതൽ വിശകലനം ചെയ്യുന്നതിന് നമുക്ക് രണ്ട് സാങ്കേതികതകളും പ്രയോഗിക്കാൻ കഴിയും